ഇന്ന് നമുക്ക് രാജാ റാവുവിൻറെ കാന്തപുര എന്ന നോവലിനെക്കുറിച്ചുള്ള ചർച്ച തുടരാം നിങ്ങൾ നാം രാജാ റാവുവിൻറെ കാന്തപുരയും ഗാന്ധിയൻ വ്യവഹാരത്തിൽ ദേശീയവാദവും അപകോളനിവൽക്കരണവുമാണ് ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് എന്ന് ഓർക്കുന്നുണ്ടല്ലോ മുമ്പത്തെ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ഗാന്ധിയൻ വ്യവഹാരത്തിൻറെ രണ്ട് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ രണ്ട് വശങ്ങളിൽ ആദ്യത്തേത് ഗ്രാമത്തിലേക്ക് മടങ്ങുക എന്ന ആശയമാണ് ഇപ്പോൾ നിങ്ങൾ ഗാന്ധി ശ്രേഷ്ഠ ഇന്ത്യയുമായി സ്വയം വീണ്ടും ബന്ധിപ്പിക്കുവാൻ ഉള്ള യാത്ര ഓർക്കുക അതിൽ പടിഞ്ഞാറൻ സംസ്കാരത്തിൻറെ ദുഷിച്ച സ്വാധീനം ഉള്ള നഗര കേന്ദ്രങ്ങളിൽ നിന്നും തിരിഞ്ഞു ഗ്രാമങ്ങളിലേക്കുള്ള മടക്കമാണ് ഉള്ളത് അവിടെ കൊളോണിയൽ ഇടപെടൽ പരമ്പരാഗത ഇന്ത്യൻ ജീവിതരീതികളെ ബാധിക്കാതെ നിലനിൽക്കുന്നു അതിനാൽ ഈ തിരിച്ചുവരവ് എന്ന പ്രയോഗം ഗാന്ധിയൻ വ്യവഹാരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്നാൽ മറ്റൊരു വശവുമുണ്ട് പിന്നെ നിങ്ങൾ മുൻപു നാം ചർച്ച ചെയ്ത ഈ രണ്ടാമത്തെ ഘടകം ദേശീയ വാദത്തെ ജനസാമാന്യവുമായി ബന്ധിപ്പിക്കണമെന്ന ഗാന്ധിയൻ നിർബന്ധം ഓർക്കുന്നുണ്ടല്ലോ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അപകോളനികൃത ഭാവി എന്ന ദേശീയ സംരംഭത്തെ നിർമ്മിക്കുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തികളുടെ സ്വകാര്യ വിഷയങ്ങൾ അല്ല കൊളോണിയൽ സംസ്കാരത്തിൻറെ കോഡുകൾ പഠിച്ചെടുത്തു സ്വയം ഉയരാൻ ശ്രമിക്കുന്നവരാണ് അവർ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ലഘൂകരണമല്ല യഥാർത്ഥ ദേശീയതയുടെ പാതയെ അറിയിക്കുന്നത് മറിച്ച് അത് ജനങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി അവരുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ശ്രമമാണ് നമ്മൾ ഗാന്ധിയൻ വ്യവഹാരത്തിൻറെ ഈ രണ്ട് വിശിഷ്ടമായ വശങ്ങളാണ് സംസാരിച്ചത് രാജാ റാവുവിൻറെ കാന്തപുര എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മൂർത്തി തുടക്കത്തിൽ തന്നെ ഗാന്ധിയൻ വ്യവഹാരത്തിൻറെ ഈ രണ്ട് വശങ്ങളുടെയും ഒരു രൂപമായി നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നും ഞാൻ പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് സർവകലാശാലയിൽ പഠിക്കാൻ പോയ മൂർത്തി നഗരത്തിൽ നിന്ന് ജന്മനാടായ കാന്തപുരയിലേക്ക് മടങ്ങിയെത്തിയതിനെക്കുറിച്ച് നോവൽ പറയുന്നു നഗരത്തിലായിരിക്കുമ്പോൾ മൂർത്തിക്ക് ഗാന്ധി ദർശനം ഉണ്ട് ഈ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻറെ സർവകലാശാലാ വിദ്യാഭ്യാസം "വൈദേശികമാണ്" എന്ന് ബോധ്യപ്പെടുത്തുന്നു അവൻറെ തുണികളും വൈദേശികമാണ് ഈ തിരിച്ചറിവ് മൂർത്തിയെ തൻറെ സർവകലാശാലാ വിദ്യാഭ്യാസവും വിദേശ വസ്ത്രങ്ങളും ഉടനടി ഉപേക്ഷിക്കുവാനും ഗ്രാമങ്ങളിലെ ദശലക്ഷക്കണക്കിന് നിശബ്ദതരുടെ അടുത്തേയ്ക്കു മടങ്ങുവാനും പ്രേരിപ്പിക്കുന്നു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഗാന്ധി ഇങ്ങനെയാണ് തൻറെ ഹിന്ദ് സ്വരാജിൽ ഗ്രാമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നോവലിൽ മൂർത്തിയുടെ ഗ്രാമത്തിലേക്ക് ഉള്ള തിരിച്ചുവരവ് ദേശീയത ബഹുജനസാമാന്യതയിൽ അധിഷ്ഠിതമാകണമെന്ന ഗാന്ധിയൻ ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം കാന്തപുരയിലേക്ക് ഉള്ള മൂർത്തിയുടെ വരവ് കൊളോണിയൽ അതോറിറ്റിക്കെതിരായ അഹിംസാ പോരാട്ടത്തിലേക്ക് തൻറെ ഗ്രാമത്തിലെ ആളുകളെയും അടുത്തുള്ള സ്കീഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റിലെ ആളുകളെയും സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു ഗ്രാമീണ സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിൻറെ ശ്രമങ്ങൾ പ്രാദേശിക ഗാന്ധി എന്ന ഖ്യാതി നേടിത്തരുന്നു അദ്ദേഹം ഗ്രാമീണർക്ക് ഗാന്ധിയുടെ രൂപത്തിലുള്ള തദ്ദേശീയ സന്യാസിയായി മാറുന്നു ഈ നോവലിൽ മൂർത്തിയുടെ ചിത്രീകരണം ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിൻറെ വിവിധ സ്വഭാവവിശേഷങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുക മാത്രമല്ല സാങ്കൽപ്പിക രൂപത്തിൽ ഗാന്ധിയെന്ന ബഹുജനനേതാവിൻറെ പ്രഭാവവും ആകർഷണീയതയും ചിത്രീകരിക്കുന്നു എന്നാൽ ഇന്ന് ഞാൻ ഈ നോവലിൽ രാജാ റാവു ഗാന്ധിയൻ വ്യവഹാരത്തെ വിമർശിക്കുന്നതിൻറെ ശക്തമായ ഒരു ഘടകവും അവതരിപ്പിക്കുന്നു സൂക്ഷ്മമാണെങ്കിലും വിമർശനത്തിൻറെ ഈ കുറിപ്പ് നോവലിൽ വ്യാപകമാണ് അതിനാൽ ഇന്നത്തെ ലക്ചറിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തെയും ഗാന്ധിയൻ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള സൂക്ഷ്മവും എന്നാൽ സർവവ്യാപകവുമായ വിമർശനങ്ങളിലുമാണ് രാജാ റാവുവിൻറെ നോവലിൽ ഈ വിമർശനത്തിൻറെ ഘടകം മനസ്സിലാക്കുകയും ചെയ്യാം നാം ഇതിനകം ചർച്ച ചെയ്ത രണ്ട് പോയിന്റുകളിലേക്ക് മടങ്ങാം ആദ്യത്തേത് ഗ്രാമത്തിലേക്ക് മടങ്ങുക രണ്ടാമതായി ബഹുജനാധിഷ്ഠിത ദേശീയത നമുക്ക് കാന്തപുര എങ്ങനെ ഗാന്ധിയൻ വ്യവഹാരത്തിൻറെ ഈ രണ്ട് വശങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അവയെ നശിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുവെന്ന് നോക്കാം അതിനാൽ നമുക്ക് മൂർത്തിയുടെ ഗ്രാമത്തിലേക്കുള്ള വരവിൽ നിന്നു തന്നെ ആരംഭിക്കാം കാന്തപുരയിൽ രാജാ റാവു പ്രയോഗിക്കുന്ന ആഖ്യാതാവ് കാന്തപുര ഗ്രാമത്തിലെ പ്രായമായ ബ്രാഹ്മണസ്ത്രീയാണെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും അച്ചക്ക എന്നാണ് അവളുടെ പേര് അച്ചക്കയെപ്പോലൊരാൾ കാന്തപുരയെ വിവരിക്കുന്നു എന്ന വസ്തുത ഓർമിക്കേണ്ടതുണ്ട് മൂർത്തി പ്രതിനിധാനം ചെയ്യുന്ന ഗാന്ധിയനിസത്തെ സൂക്ഷ്മമായി അടിച്ചമർത്താൻ രാജാ റാവു ഈ ഗ്രാമീണ വൃദ്ധയായ അച്ചക്കയുടെ വീക്ഷണം ഉപയോഗിക്കുന്നതാണ് ഇതിന് കാരണം ഇത് നോവലിൻറെ തുടക്കത്തിൽ അച്ചക്ക തൻറെ ജന്മഗ്രാമത്തെയും ഗ്രാമവാസികളെയും വായനക്കാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നാം കാണുന്നു അതിനാൽ ബ്രാഹ്മണ ക്വാർട്ടേഴ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഗ്രാമീണ ഭൂമിശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്ന ജാതി അടിസ്ഥാനമാക്കിയുള്ള ക്വാർട്ടേഴ്സുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഈ ജാതി വിഭാഗങ്ങളിലേക്ക് പിന്നീട് നമുക്ക് തിരിച്ചു വരാം എന്നാൽ അച്ചക്ക ബ്രാഹ്മണ ക്വാർട്ടേഴ്സിലെ താമസക്കാരെ വിവരിക്കുമ്പോൾ ദോരൈ എന്ന കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആരാണ് ദോരൈ കാന്തപുരയിൽ നിന്നുള്ള ഒരു യുവാവാണ് ദോരൈ സ്വന്തം ഗ്രാമം വിട്ട് സർവകലാശാല ബിരുദധാരിയാകുവാൻ നഗരത്തിൽ പോയി പഠനത്തിൽ അദ്ദേഹം വിജയിച്ചില്ലെങ്കിലും നഗരത്തിലായിരുന്നപ്പോൾ ദോരൈ കുറച്ച് പുതിയ ശീലങ്ങൾ സ്വീകരിച്ചുവെന്ന് അച്ചക്ക പറയുന്നു അതിനാൽ അച്ചക്കയുടെ വാക്കുകളിൽ അയാൾ നഗര രീതികൾ സ്വീകരിക്കുകയും നഗരപുസ്തകങ്ങൾ വായിക്കുകയും സ്വയം ഗാന്ധി മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു സിറ്റി എന്ന വാക്കിൻറെ ആവർത്തിച്ചുള്ള ഊന്നൽ ഈ പുതിയ വഴികളുടെ വൈദേശികതയെ അടിവരയിടാനുള്ള അച്ചക്കയുടെ ശ്രമവും ദോരൈയ്ക്ക് നഗരo തുറന്നുകാട്ടിയ പുതിയ പുസ്തകങ്ങളും കാണിക്കുന്നു ആവർത്തിച്ചുള്ള ഈ ഊന്നൽ അച്ചക്കയുടെ ഭാഗത്തുനിന്നുണ്ടായ വെറുപ്പിനെ സൂചിപ്പിക്കുന്നു ഇത് പാശ്ചാത്യ ശൈലിയിലുള്ള സർവകലാശാലയുo നഗരത്തിൻറെ വിദേശ വഴികളും ഇന്ത്യക്കാർ പാശ്ചാത്യ നാഗരികതയുടെ ദുഷിച്ച സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒഴിവാക്കേണ്ട തിന്മകളായി ഗാന്ധി സങ്കൽപ്പിക്കുന്നത് നമ്മെ ഉടനടി ഓർമിപ്പിക്കുന്നു ഇതുവരെ ഗാന്ധിയൻ വ്യവഹാരവും അച്ചക്കയുടെ വീക്ഷണവും ഏതാണ്ട് ഒരുപോലെയാണ് എന്നാൽ ഇവിടെയുള്ള വിരോധാഭാസം ദോരൈ ഒരു ഗാന്ധി മനുഷ്യനാകുന്നത് നഗരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പുതിയ വിചിത്രമായ ആശയമാണെന്നുള്ളതാണ് അച്ചക്കയുടെ വീക്ഷണത്തിൽ നഗര വഴികളും നഗരപുസ്തകങ്ങളും പോലെ ഗാന്ധിയനിസവും ദോരൈ തൻറെ ജന്മഗ്രാമത്തിൻറെ പരിധിയിൽ നിന്ന് പുറത്തുപോയതിനുശേഷം എടുക്കുന്ന ഒരു കാര്യമാണ് വിരോധാഭാസമെന്നു പറയട്ടെ കാന്തപുരയിൽ ദേശീയതയുടെ ഗാന്ധിയൻ വ്യവഹാരം നഗരത്തെ തിന്മകളുടെയും രോഗങ്ങളുടെയും ഗുഹയായി അവതരിപ്പിക്കപ്പെടുന്നു ദോരൈയെപ്പോലുള്ള യുവഗ്രാമീണർ ഗാന്ധിയൻ ആശയങ്ങൾക്കു വശംവദരാകുന്ന ഇടവുമായി ചിത്രീകരിക്കപ്പെടുന്നു അവർ സ്വയം അച്ചക്കയെപ്പോലുള്ള ഗ്രാമീണർക്ക് തിരിച്ചറിയാനാകാത്ത വിദേശികളായി മാറുന്നു അതിനാൽ നഗര വഴികളും നഗര ശീലങ്ങളും സ്വീകരിച്ച ദോരൈ എന്ന ഗാന്ധിയനോടുള്ള അച്ചക്കയുടെ അവജ്ഞ സ്പഷ്ടമാണ് അച്ചക്കയുടെ ദോരൈയെക്കുറിച്ചുള്ള ഈ വിലയിരുത്തൽ ഞാൻ ഇത്രയും പറയുവാൻ കാരണം ഈ നോവലിൽ ദോരൈ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിനാലല്ല അദ്ദേഹം വളരെ പ്രാധാന്യമുള്ള കഥാപാത്രമല്ല വാസ്തവത്തിൽ ആദ്യ പേജുകൾക്ക് ശേഷം അദ്ദേഹത്തെ പരാമർശിക്കുന്നില്ല എന്നാൽ ദോരൈയുടെ പ്രാധാന്യം എന്തെന്നാൽ അയാളെക്കുറിച്ച് അച്ചക്ക തൻറെ അതൃപ്തി പ്രകടിപ്പിച്ചയുടനെ ആദ്യമായി മൂർത്തിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അതിനാൽ ദോരൈയെക്കുറിച്ചുള്ള ഈ വിവരണത്തിന് ശേഷം ഉടൻ തന്നെ മൂർത്തിയെ വിവരിക്കുക മൂർത്തിയെ ആദ്യമായി വായനക്കാരന് പരിചയപ്പെടുത്തുന്നു അച്ചക്ക ദോരൈയ്ക്ക് വിപരീതമായി മൂർത്തിയെ വളരെയധികം പ്രശംസിക്കുന്നു ഇവിടെ നമ്മൾ മൂർത്തിയുടെ കരിയർ ഗ്രാഫ് ഏതാണ്ട് ദോരൈയുടെ കൃത്യമായ ഒരു പകർപ്പാണെന്ന് ഓർക്കണം ദോരൈയെ പോലെ മൂർത്തിയും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വിദേശ സർവകലാശാലാ വിദ്യാഭ്യാസം നേടാനായി പോയി എന്ന അർത്ഥത്തിലാണിത് നഗരത്തിൽ ദോരൈയെ പോലെ അദ്ദേഹം ഗാന്ധിയൻ സ്വാധീനത്തിൻ കീഴിൽ വരികയും ഗാന്ധിയനാകുകയും അത് ക്രമേണ അദ്ദേഹത്തിൻറെ ഗ്രാമത്തിലേക്കുള്ള തിരിച്ചുവരവിൽ കലാശിക്കുന്നു എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂർത്തിയോടുള്ള അച്ചക്കയുടെ മനോഭാവം ദോരൈയോടുള്ള അവരുടെ മനോഭാവത്തിന് തികച്ചും വിരുദ്ധമാണ് ദോരൈ അവരുടെ അപ്രീതി നേടിയെടുക്കുമ്പോൾ ജീവിതം ഏതാണ്ട് അതേ രീതിയിൽ നയിച്ചതിന് മൂർത്തിയെ പ്രശംസിക്കുന്നു ഇത് മൂർത്തിയുടെ ഗാന്ധിയനിസത്തോട് അച്ചക്ക വ്യത്യസ്തമായ വീക്ഷണം പുലർത്തുന്നതിനാലല്ല മറിച്ച് മൂർത്തിയെക്കുറിച്ച് അച്ചക്ക നമ്മോട് പറയുന്നതിൽ ഇത് വളരെ വ്യക്തമാകും മൂർത്തി അച്ചക്കയുടെ സ്വന്തം മകൻ സീനുവിൻറെ ബാല്യകാല സുഹൃത്തായിരുന്നു എന്നത് കൊണ്ടാണ് മൂർത്തിയെ അംഗീകരിച്ചത് ഗാന്ധിയൻ ആയതിന് മൂർത്തിയെ പ്രശംസിക്കുന്നതിനുപകരം ആദ്യ സമയങ്ങളിൽ അച്ചക്കയെപ്പോലുള്ള ഗ്രാമീണർ ഗാന്ധിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി മൂർത്തി ഗ്രാമത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് തികച്ചും സംശയാലുക്കളാണ് അതിനാൽ ഈ അവിശ്വാസം മനസിലാക്കാൻ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഗ്രാമീണരിൽ ചർക്കയുടെ ഉപയോഗം ജനപ്രിയമാക്കാൻ മൂർത്തി നടത്തിയ ശ്രമം നമുക്ക് ഉദാഹരണമായി എടുക്കാം ചർക്കയും ഖാദിയുടെ നെയ്ത്തും ഒരുപക്ഷേ ഇന്ത്യൻ സ്വത്വത്തിലേക്ക് ഉള്ള തിരിച്ചുവരവിൻറെയും ഗാന്ധിയൻ വ്യവഹാരത്തിൽ പൈശാചിക പാശ്ചാത്യനാഗരികതയെ ബഹിഷ്കരിക്കുന്നതിൻറെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധിയൻ പ്രതീകങ്ങളാണ് അതിനാൽ ഖാദിയെ നെയ്തെടുക്കാനുള്ള ഗാന്ധിയുടെ ആഹ്വാനം എല്ലായ്പ്പോഴും വിദേശനിർമ്മിത വസ്ത്രങ്ങൾ നീക്കം ചെയ്യാനുള്ള അദ്ദേഹത്തിൻറെ ആഹ്വാനത്തോടൊപ്പമായിരുന്നു വിദേശ വസ്ത്രങ്ങളും വിദേശ സർവകലാശാലാ പുസ്തകങ്ങളും കത്തിക്കന്നതിലൂടെയാണ് നഗരത്തിൽ നിന്ന് മൂർത്തി ഗ്രാമത്തിലേക്ക് മടങ്ങിവരുന്നത് ആരംഭിക്കുന്നത് പക്ഷേ കാന്തപുരയിലേക്കുള്ള അദ്ദേഹത്തിൻറെ തിരിച്ചുവരവ് ചർക്കയും ഖാദിയുടെ നെയ്ത്തും പ്രബലമായ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിവരുന്നുവെന്ന് അർത്ഥമാക്കുന്നില്ല വാസ്തവത്തിൽ മൂർത്തി ഗ്രാമീണരോട് വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാനും ഖാദി നെയ്തെടുക്കാനും ആവശ്യപ്പെടുമ്പോൾ നഞ്ചമ്മ എന്ന കഥാപാത്രം ബ്രാഹ്മണർ നെയ്യുകയില്ലെന്നും അത് നെയ്ത്ത് ജാതിയുടെ തൊഴിലാണെന്നും മൂർത്തിയെ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ നഞ്ചമ്മ നെയ്ത്തിനെ എതിർത്തപ്പോൾ മൂർത്തി പ്രതിനിധാനം ചെയ്യുന്ന ഗാന്ധിയൻ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ സങ്കീർണ്ണമാക്കുന്ന ഒരു സുപ്രധാന കാര്യം നാം കാണേണ്ടതുണ്ട് ജാതി വേർതിരിക്കൽ സമ്പ്രദായത്തോടുള്ള അദ്ദേഹത്തിൻറെ എതിർപ്പാണ് മൂർത്തിയുടെ ഗ്രാമത്തിലെ ആക്ടിവിസത്തിൻറെ ശക്തമായ സ്വഭാവം വാസ്തവത്തിൽ വിവിധ ജാതി ഭ്രഷ്ടുകളെ തകർക്കാൻ മൂർത്തി കൂടുതൽ സമയം ചെലവഴിക്കുന്നു കാരണം അദ്ദേഹം ആൻറ്റികോളോണിയൽ ലക്ഷ്യത്തിനായി ഗ്രാമീണരെ അണിനിരത്തുന്നു ഇത് ഗ്രാമീണ ജീവിതം മുഴുവനും സംഘടിപ്പിക്കപ്പെടുന്ന പഴയ ജാതി മുൻവിധികളെ മൂർത്തി നേരിടുന്നു നോവലിൻറെ ആദ്യ പേജുകളിൽ അച്ചക്ക ഗ്രാമത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലും ഇത് വ്യക്തമാണ് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രത്യേക ജാതിക്കാർ അധിവസിക്കുന്ന വിവിധ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന ഗ്രാമീണ ഭൂപ്രകൃതിയെ അച്ചക്ക അവതരിപ്പിക്കുന്നു അതിനാൽ ഒരു ജാതിയിൽ നിന്ന് മറ്റൊന്ന് വേർതിരിക്കുന്ന നിരവധി വേർതിരിവുകളുള്ള ഒരു ഐക്യമാണ് ഗ്രാമം ഭട്ട എന്ന കഥാപാത്രത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് കൂടുതൽ സംസാരിക്കാം ഭട്ട ഗ്രാമ പുരോഹിതനും പണമിടപാടുകാരനുമാണ് നോവലിൽ മൂർത്തിയുടെ പ്രധാന ശത്രുവായി അദ്ദേഹം മാറുന്നു അദ്ദേഹം മൂർത്തിയെ വിമർശിക്കുന്നു മൂർത്തി പരമ്പരാഗത ജാതിവ്യവസ്ഥയെ ആക്രമിക്കുന്നു എന്നതിൻറെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻറെ വിമർശനം അതിനാൽ മൂർത്തിയുടെ ഗ്രാമത്തിലേക്കുള്ള തിരിച്ചുവരവ് ഗ്രാമീണ ജീവിതത്തിൻറെ പരമ്പരാഗത ധാർമ്മികത അംഗീകരിക്കാനുള്ള ആഗ്രഹം കുറച്ചുകൂടി അടയാളപ്പെടുത്തുന്നു കൂടാതെ കൊളോണിയൽ അതോറിറ്റിക്കെതിരെ ഗ്രാമീണ ജനതയെ ഏകജാതീയമായ ജനതയായി മാറ്റാനുള്ള ആഗ്രഹവുമുണ്ട് അതിൽ മൂർത്തിയുടെ തിരിച്ചുവരവിൻറെ കഥ ഗ്രാമവുമായി അദ്ദേഹം സുഗമമായി സംയോജിപ്പിച്ചതിൻറെ കഥയല്ല മറിച്ച് ഗാന്ധിയൻ വ്യവഹാരത്തിൽ യഥാർത്ഥ ഇന്ത്യൻ ജീവിതരീതിയുടെ കലവറയായി മഹത്ത്വവത്കരിക്കപ്പെടുന്നു മറിച്ച് കാന്തപുരയിലെ ഗ്രാമീണ ജീവിതത്തിൻറെ പതിവിനെ മൂർത്തി തടസ്സപ്പെടുത്തുന്നതാണ് കഥ വിവിധ ജാതി ഭ്രഷ്ടുകളെ തകർക്കാനുള്ള അദ്ദേഹത്തിൻറെ ശ്രമങ്ങളിൽ മാത്രമല്ല സ്ത്രീകളെ രാഷ്ട്രീയമായി അണിനിരത്താനും ഗ്രാമീണ ജീവിതത്തിൻറെ പുരുഷാധിപത്യ മാർഗം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഗാർഹിക പരിധികളിൽ നിന്ന് അവരെ പുറത്താക്കാനുമുള്ള അദ്ദേഹത്തിൻറെ ശ്രമങ്ങളിലും ഇത് വ്യക്തമാണ് മൂർത്തിയുടെ ആൻറ്റികോളോണിയൽ പ്രസ്ഥാനം രത്നയെപ്പോലുള്ള ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവരുന്നു ഒരു യുവവിധവയെന്ന നിലയിൽ അവൾ സ്വന്തം മനസ്സോടെ കാന്തപുരയുടെ പുരുഷാധിപത്യക്രമത്താൽ വെറുക്കപ്പെടുകയും "വെപ്പാട്ടിയായി" തരംതാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ നാം മൂർത്തിയെ ഗ്രാമീണ ജീവിതത്തിനെ വിഘ്നപ്പെടുത്തുന്ന വിദേശ സ്വാധീനമായിട്ടാണ് കാണേണ്ടത് ഗ്രാമീണ ജീവിതത്തിൻറെ നിലവിലുള്ള താളത്തിലേക്ക് സ്വയം ഒത്തുചേരാൻ ശ്രമിക്കുന്ന ഒരു മുടിയനായ പുത്രനായി അദ്ദേഹം മടങ്ങിവരുന്നതിനുപകരം ഗ്രാമത്തെ ഒന്നിച്ചുനിർത്തുന്ന പല പഴയ രീതികളെയും നശിപ്പിക്കുന്ന ഒരു പ്രധാന ശക്തിയായി മൂർത്തി ഉയർന്നുവരുന്നു ഇവിടെ മൂർത്തിയുടെ ഒരു നടപടിയും ധാർമ്മികമായി ശരിയായ കാര്യങ്ങളാണോ അല്ലയോ എന്നതിൻറെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വിധി എഴുതുന്നില്ല എന്ന് ഞാൻ വ്യക്തമാക്കേണ്ടതുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഗ്രാമത്തിലേക്കുള്ള മൂർത്തിയുടെ ശാരീരിക തിരിച്ചുവരവ് ഗ്രാമജീവിതത്തിലേക്കുള്ള ലളിതമായ സ്വാംശീകരണമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവത്തിൽ താൻ മടങ്ങിവരുന്ന ഗ്രാമത്തിനെ പരിവർത്തനം ചെയ്യാനുള്ള മൂർത്തിയുടെ ആഗ്രഹവും ജാതി വേർതിരിക്കലിൻറെയും പുരുഷാധിപത്യത്തിൻറെയും തിന്മകളെ നേരിടാനുള്ള അദ്ദേഹത്തിൻറെ ശ്രമങ്ങളും മടങ്ങിവരവ് എന്ന ആശയത്തെ ചോദ്യം ചെയ്യുന്നു അതിനാൽ ജാതിയും ലിംഗവിവേചനവും എഴുതിയതാണെങ്കിലും കൊളോണിയൽ സ്വാധീനത്താൽ സ്പർശിക്കപ്പെടാതെ കിടക്കുന്ന ഗ്രാമീണ ജീവിതത്തിലേക്ക് ശാരീരികമായി മടങ്ങിപ്പോകുന്നതിലൂടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന ഒരു ചോദ്യമാണ് നാം അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ രാജാ റാവു എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണാം ചിനുവ അച്ചെബീയുടെ തിങ്സ് ഫോൾ എപാർട്ട് കൃത്യമായി ഇതു തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം അച്ചെബീയുടെ നോവൽ പോലെ കാന്തപുരയും പരമ്പരാഗത തദ്ദേശീയ സമൂഹത്തെ ഇതിനകം തന്നെ കൊളോണിയലിസത്തിൻറെ ദുഷിച്ച സ്വാധീനം ഇല്ലാതാക്കുമ്പോഴും അത് ബാധിക്കുന്ന തെറ്റായ രേഖകൾ വെളിപ്പെടുത്തുന്നു ഈ രണ്ട് നോവലുകളും കാന്തപുരയും അച്ചെബീയുടെ തിങ്സ് ഫോൾ എപാർട്ടും തിരിച്ചുവരവ് എന്ന ലളിതമായ സങ്കല്പത്തെ ഒരു അപകോളനീകരണ തന്ത്രമാക്കുന്നു തിരിച്ചുവരവ് എന്ന ആശയത്തിന് പുറമെ ആൻറ്റികോളോണിയൽ നാഷണലിസത്തെ ബഹുജനസാമാന്യതയിൽ അധിഷ്ഠിതമാക്കുന്നതിനുള്ള ഗാന്ധിയൻ ശ്രമത്തെയും നോവൽ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരയെക്കുറിച്ചുള്ള ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വായനക്കാരനെ നോവലിൻറെ ഉപരിപ്ലവമായ വായന ഗ്രാമവാസികളിൽ ദേശീയത മനോഭാവം ജ്വലിപ്പിക്കാനും ജാതി വേർതിരിക്കലിൻറെയും പുരുഷാധിപത്യസങ്കുചിതത്വത്തിൻറെയും പെരുമാറ്റങ്ങളെ തകർക്കുന്നതിലൂടെ അവരെ കൊളോണിയൽ അതോറിറ്റിയ്ക്ക് എതിരെയുള്ള ഐക്യപ്രതിപക്ഷമാക്കി മാറ്റാൻ മൂർത്തിക്ക് കഴിഞ്ഞുവെന്ന് ഒരുപക്ഷേ ബോധ്യപ്പെടുത്തും ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ മൂർത്തി ഗ്രാമവാസികളിൽ ജ്വലിപ്പിക്കുന്ന എതിർപ്പിൻറെയും ചെറുത്തുനിൽപ്പിൻറെയും ശക്തി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സ്വാഭാവികമായി തിരിയുന്നില്ല എന്നു കാണാം കാന്തപുര ഗ്രാമത്തിനുള്ളിൽ നടക്കുന്ന ഈ ആൻറ്റികോളോണിയൽ പ്രസ്ഥാനത്തിൻറെ സങ്കീർണ്ണമായ ചലനാത്മകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമുമ്പ് നമുക്ക് ഒരു നിമിഷം സ്കീഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റ് പരിഗണിക്കാം കാരണം അവിടെയും മൂർത്തി ഒരു ആൻറ്റികോളോണിയൽ പ്രതിരോധം സംഘടിപ്പിക്കുന്നു സ്കീഫിംഗ്ടൺ കോഫി എസ്റ്റേറ്റ് നടത്തുന്നത് ബ്രിട്ടീഷുകാരാണ് രാജ്യത്തിൻറെ നാനാഭാഗത്തു നിന്നുമുള്ള ഇന്ത്യക്കാരെ തെറ്റായ വാഗ്ദാനങ്ങളുമായി എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നതെന്നും അവിടെ ബോണ്ടഡ് തൊഴിലാളികളായി ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നതെങ്ങനെയെന്നും നോവൽ വിവരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണക്കാരനും ദരിദ്ര ഇന്ത്യൻ ചൂഷിതരും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായി വരച്ചുകാട്ടുന്ന ക്രൂരമായ അക്രമത്തിൻറെയും ചൂഷണത്തിൻറെയും ഒരു സ്ഥലമായാണ് കോഫി എസ്റ്റേറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് അത് സ്പഷ്ടമാണ് അതിനാൽ ചൂഷണക്കാരനായ വെള്ളക്കാരൻറെ അധികാരത്തിൻറെ അടിച്ചമർത്തലുകളെ ചെറുക്കാനുള്ള മൂർത്തിയുടെ ആഹ്വാനം കോഫി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കിടയിൽ സ്വീകാര്യത കണ്ടെത്തുന്നു അവർ ഉടനെ അവസരത്തിനൊത്ത് ഉയരുന്നു എന്നാൽ ഇത് കാന്തപുര ഗ്രാമവുമായി താരതമ്യം ചെയ്താൽ അടിച്ചമർത്തലിൻറെ രീതികൾ കൂടുതൽ സങ്കീർണ്ണമാണെന്ന് നമുക്ക് കാണാം വെള്ളക്കാർ സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യുന്നുവെന്ന് മൂർത്തി ഗ്രാമവാസികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ചൂഷണത്തിൻറെ യഥാർത്ഥ മുഖം പണമിടപാടുകാരൻ ഭട്ടയാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഭട്ട ഒരു ബ്രിട്ടീഷ് കോളനിക്കാരനല്ല അദ്ദേഹം ഒരു വിദേശിയോ നഗരം വളർത്തിയ ആളോ അല്ല എന്നതാണ് വാസ്തവത്തിൽ ഒരു ഗ്രാമ പുരോഹിതനെന്ന നിലയിൽ അദ്ദേഹം ഗ്രാമീണ ജീവിതത്തിൻറെ ഘടനയിൽ സമഗ്രമായി സംയോജിതനാണ് ആൻറ്റികോളോണിയൽ ദേശീയതയെക്കുറിച്ചുള്ള മൂർത്തിയുടെ വ്യവഹാരം ഭട്ടയെപ്പോലൊരാൾ നടത്തുന്ന ചൂഷണത്തെ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോളോനൈസറുo കോളനിവത്കരിക്കപ്പെട്ടവർക്കുമിടയിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണത്തെ മൂർത്തി തിരിച്ചറിഞ്ഞെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനും മറ്റൊരാളും തമ്മിലുള്ള വർഗ്ഗ ചൂഷണം അറിയാത്തവനായി നോവലിൽ തുടരുന്നു അതിനാൽ നോവലിലുടനീളം മൂർത്തിയുടെ ശ്രദ്ധ പ്രധാനമായും ബ്രിട്ടീഷ് കോളോനൈസറുo കീഴടക്കിയ ഇന്ത്യക്കാരും തമ്മിലുള്ള കൊളോണിയൽ ചൂഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലാണ് എന്നാൽ ഒരു ഇന്ത്യക്കാരനെ മറ്റൊരാൾ ചൂഷണം ചെയ്യുന്ന വർഗ്ഗ ചൂഷണത്തെ കുറിച്ച് അദ്ദേഹം ശരിക്കും ചിന്തിക്കുന്നില്ല അങ്ങനെ 15 ാം അധ്യായത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ തൻറെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം സ്വന്തം ഭാര്യയെ അടിക്കുകയും ഗ്രാമത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്ത്യൻ റവന്യൂ കളക്ടറുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ മൂർത്തിക്ക് ഉത്തരം മുട്ടുന്നു അതിനാൽ നോവൽ വായിക്കുമ്പോൾ ഗ്രാമീണർ ഉയർന്ന് അടിച്ചമർത്തലിനെ ചെറുക്കുമോ എന്ന് ഒരാൾക്ക് ഉറപ്പിക്കാനാവില്ല മൂർത്തി സംഘടിപ്പിക്കുന്ന ചെറുത്തുനിൽപ്പ് ഭൂരിഭാഗം ഗ്രാമീണർക്കും വിദൂര സ്ഥാപനമായി തുടരുന്ന വെള്ളകാരൻറെ ഗവൺമെൻറിന് എതിരാണോ അതോ ഇന്ത്യൻ റവന്യൂ കളക്ടറോ അല്ലെങ്കിൽ ഭട്ടയെപ്പോലുള്ള ഇന്ത്യൻ ചൂഷകരെയാണോ എതിർക്കുന്നത് എന്ന് നാം അല്പം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വെള്ളക്കാർ ഗ്രാമീണരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന രീതികളെക്കുറിച്ച് മൂർത്തി വിശദീകരിച്ചിട്ടും രത്നയെപ്പോലുള്ളവർ അല്ലെങ്കിൽ രംഗമ്മയെ സംബന്ധിച്ചിടത്തോളം ഭട്ടയുടെ കളപ്പുരകൾ കത്തി നശിക്കുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു കാരണം വെള്ളക്കാരനല്ല ഭട്ടയാണ് അവർക്ക് അമിത നിരക്കിൽ പണം കടം കൊടുക്കുന്നതും അവരെയും അവരുടെ മക്കളെയും പട്ടിണിക്ക് ഇടുന്നതും കോപം ഭട്ടയെപ്പോലുള്ള ചില ഇന്ത്യക്കാരോട് വളരെ കൂടുതലാണ് അതിനാൽ ഒരു കൊളോണിയൽ സമൂഹത്തിനുള്ളിൽ അടിച്ചമർത്തൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രകടമാണ് മാത്രമല്ല ഒരു ഇന്ത്യക്കാരന് മറ്റുള്ളവനോടുള്ള വർഗബന്ധത്തെ അറിയിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ സമൂഹത്തിലെ പ്രതിസന്ധിയുടെ പ്രധാന ഉറവിടങ്ങളിലൊന്നായി ഈ വർഗ്ഗ വ്യത്യാസവും വർഗ ചൂഷണവും മൂർത്തി തിരിച്ചറിഞ്ഞതോടെയാണ് നോവൽ അവസാനിക്കുന്നത് അങ്ങനെ ഒരു ആൻറ്റികോളോണിയൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ഒടുവിൽ ഗാന്ധിയൻ ആദർശവാദത്തിൽ നിന്ന് റിയാലിറ്റേറിയനിസത്തിൻറെ നെഹ്റുവിയൻ സ്വപ്നത്തിലേക്ക് തൻറെ ബന്ധം മാറ്റിയതായി കാണുന്നു ഈ നോവൽ ഗാന്ധിയൻ ആദർശവാദത്തിൻറെ നോവലായി സാധാരണയായി വായിക്കാറുണ്ട് കേന്ദ്ര കഥാപാത്രമായ മൂർത്തി നെഹ്റുവിയൻ കഥാപാത്രമായി മാറുന്നതും ഗാന്ധിയിൽ നിന്ന് നെഹ്റുവിലേക്ക് വിശ്വസ്തത മാറ്റുന്നതും നോവലിൻറെ അവസാനത്തിൽ നാം കാണുന്നു കാന്തപുരയെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ലക്ചറിൽ രബീന്ദ്രനാഥ ടാഗോറിനെയും ഫ്രാൻസ് ഫാനോനെയും കുറിച്ച് ചർച്ച ചെയ്യാം മധ്യവർഗത്തിൻറെ നേതൃത്വത്തിലുള്ള ആൻറ്റികോളോണിയൽ നാഷണലിസത്തെക്കുറിച്ചുള്ള അവരുടെ വ്യക്തമായ വിമർശനങ്ങൾ നമുക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് നന്ദി